കഴിഞ്ഞ കുറച്ച് സെഷനുകളിൽ നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് CVP BEP വിശകലനം അതിന്റെ ഉപയോഗം എന്നിവയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഇതുപോലുള്ള ഒരു കേസ്സ് നമ്മൾ കണ്ടു അടുത്ത വർഷത്തെ പ്രൊജക്ഷനുകളിലേക്കോ അടുത്ത കാലയളവിലെ പ്രസ്താവനകളിലേക്കോ ഉള്ള അതിന്റെ ഉപയോഗവും നമ്മൾ ചർച്ച ചെയ്തു അതേ തരത്തിലുള്ള കേസുമായി നമ്മൾ തുടരും ദിവ്യ ഔഷധി ലിമിറ്റഡിന്റെ ഒരു കേസാണിത് അവർ P Q എന്നീ രണ്ട് ഉൽപ്പന്ന ലൈനുകളിൽ പെടുന്നു ആ ലൈനുകളുമായി ബന്ധപ്പെട്ട വരുമാനങ്ങളെയും ചിലവുകളെയും നികുതികളെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു അവ യഥാർത്ഥത്തിൽ ആ ദിവ്യ ഔഷധി ഗ്രൂപ്പിന് കീഴിലുള്ള P Q എന്നീ രണ്ട് അനുബന്ധ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഏത് ഡാറ്റയാണ് ലഭ്യമാകുന്നത് എന്നതിനെക്കുറിച്ചുള്ള പ്രൊജക്ഷൻ നിങ്ങൾ നടത്തേണ്ടതുണ്ട് ഡാറ്റ ഷീറ്റുകൾ നിങ്ങളുടെ പക്കലുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ദയവായി അത് എന്നോടൊപ്പം പരിഹരിക്കാൻ ശ്രമിക്കുക അതിനാൽ ഈ രണ്ട് കമ്പനികൾ പി ക്യു എന്നിവയ്ക്കായി ഞങ്ങൾക്ക് വിൽപ്പന വിറ്റുവരവ് മറ്റ് വരുമാനം തുടർന്ന് അസംസ്കൃത വസ്തുക്കൾ വൈദ്യുതി ഇന്ധനം ജീവനക്കാരുടെ ചെലവുകൾ വിൽപ്പന പലിശ മൂല്യത്തകർച്ച നികുതി വേരിയബിൾ എലമെന്റിന്റെ ശതമാനം എന്നിവ ലഭിച്ചു അതിനാൽ രണ്ട് സാഹചര്യങ്ങളിലും അസംസ്കൃത വസ്തുക്കൾ 100 ശതമാനം വേരിയബിളാണ് വൈദ്യുതി P യ്ക്ക് 80 ശതമാനം വേരിയബിളും Q നു 60 ശതമാനം വേരിയബിളുമാണ് ഇപ്പോൾ വരും കാലയളവിലേക്കുള്ള പ്രവചനങ്ങളും നൽകിയിരിക്കുന്നു വിൽപ്പന യൂണിറ്റുകൾ 10 ശതമാനവും വിൽപ്പന വില 12 ശതമാനവും ആർഎം ചെലവ് 7 ശതമാനവും മറ്റ് പ്രവർത്തന ചെലവ് 10 ശതമാനവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇതാണ് 19 20 നുള്ള വിവരങ്ങൾ ഇവയെ അടിസ്ഥാനമാക്കി അടുത്ത വർഷം 20 21 ലേക്ക് കണക്ക് എടുക്കേണ്ടതുണ്ട് മൂല്യത്തകർച്ചയും പലിശയും മറ്റ് വരുമാനവും മാറില്ലെന്ന് ചില അനുമാനങ്ങൾ ഇതിനകം നൽകിയിട്ടുണ്ട് ഈ ഇനങ്ങൾക്ക് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൌണ്ടിംഗും ആയി ഒന്നും ചെയ്യാനില്ല അതിനാൽ സാധാരണയായി ഞങ്ങൾ ആ പ്രവചനങ്ങൾ ഇവിടെ എടുക്കുന്നില്ല അവ സമാനമാണെന്നും നികുതി നിരക്കുകളും മാറാൻ പോകുന്നില്ലെന്നും ഞങ്ങൾ അനുമാനിക്കും ഈ വിവരങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ പ്രവചനങ്ങൾ നടത്തേണ്ടതുണ്ട് അതിനാൽ ഞങ്ങൾ ഇപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകും നിങ്ങളിൽ ഭൂരിഭാഗവും അത് ശരിയാണെന്ന് ഊഹിക്കുമെന്ന് ഞാൻ കരുതുന്നു ആദ്യം നമ്മൾ ഓരോ ചെലവും വേരിയബിൾ പോർഷനും ഫിക്സഡ് പോർഷനും ആയി വിഭജിക്കണം വേരിയബിലിറ്റിയുടെ ശതമാനം നൽകിയിരിക്കുന്നു അതിനാൽ ഓരോ ചെലവും ദയവായി വേരിയബിൾ ഭാഗവും ഫിക്സഡ് ഭാഗവും ആയി വിഭജിക്കുക തുടർന്ന് യൂണിറ്റുകളുടെ എണ്ണത്തിലെ മാറ്റത്തിനനുസരിച്ച് വേരിയബിൾ ഭാഗം മാറും ഫിക്സ് പോർഷൻ മാറ്റമില്ലാതെ തുടരും മാറ്റമില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അത് മാറില്ല എന്നല്ല അർത്ഥമാക്കുന്നത് എന്നാൽ യൂണിറ്റുകളിലെ മാറ്റം മൂലം ഇത് മാറില്ല വിലയിലോ ചെലവുകളിലോ ഉള്ള മാറ്റം കാരണം ഇത് മാറും അതിനാൽ ഇത് നിങ്ങൾക്ക് ഒരു സൂചനയാണ് ഇത് പ്രോജെക്ടഡ് സ്റ്റേറ്റ്മെന്റാണ് അതിൽ അസംസ്കൃത വസ്തുക്കൾ പൂർണ്ണമായും വേരിയബിൾ ആണെന്ന് നിങ്ങൾ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചാൽ കാണാം അവിടെ 2 കോളം ഇല്ല അതിനായി 2 നിര വരികൾ എന്നാൽ വൈദ്യുതിക്കും ഇന്ധനത്തിനുമായി ഞങ്ങൾ 2 വരി ആക്കി പവർ വേരിയബിൾ എന്നും ഫിക്സഡ് എന്നും രണ്ടു ഭാഗമാക്കി മാറ്റി തുടർന്ന് ജീവനക്കാരുടെ ചെലവ് വേരിയബിൾ എന്നും ഫിക്സഡ് എന്നും രണ്ടു ഭാഗമാക്കി മാറ്റി ഇപ്പോൾ നമുക്ക് ഈ വർഷം ഈ ബ്രേക്ക് അപ്പ് ആവശ്യമായി വരും കാരണം അതിനനുസരിച്ച് വേണം അടുത്ത വർഷത്തേക്കുള്ള ആസൂത്രണങ്ങൾ നടത്താൻ അതിനാൽ നമുക്ക് ആരംഭിക്കാം പരിഹരിക്കാൻ ശ്രമിക്കാം ദയവായി എന്നോടൊപ്പം ഇത് പരിഹരിക്കാൻ ശ്രമിക്കുക അതിനാൽ ഞാൻ ആദ്യം എല്ലാ കണക്കുകളും അതേപടി പകർത്തി വേരിയബിൾ എലമെന്റും ഇവിടെ യഥാക്രമം 100 80 60 75 എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ പ്രൊജക്ഷനുകൾ തയ്യാറാക്കാൻ പോകുന്നു അടുത്ത വർഷത്തെ വിൽപ്പന എന്തായിരിക്കും നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കും ആർക്കെങ്കിലും സൂചനയുണ്ടോ അതിനാൽ വിൽപ്പന കണക്കാക്കുന്നതിന് ഞങ്ങൾ നിലവിലെ വിൽപ്പന എടുക്കും തുടർന്ന് മാറ്റങ്ങൾ നോക്കുക ഇപ്പോൾ വിൽപ്പന യൂണിറ്റുകളും വിൽപ്പന വിലകളും മാറുന്നു അതിനാൽ വിൽപ്പന യൂണിറ്റുകളുടെ സ്വാധീനം നൽകുക വിൽപ്പന യൂണിറ്റുകൾ 10 ശതമാനം വർദ്ധിക്കുന്നു അതിനാൽ നമുക്ക് യഥാർത്ഥ വിൽപ്പനയെ 1 1 കൊണ്ട് ഗുണിക്കാം വിൽപ്പന വിലയിൽ അവ 8 ശതമാനം വർദ്ധിക്കുന്നു അതിനാൽ 1 08 കൊണ്ട് ഗുണിക്കുക അത് ഓരോ ഐറ്റത്തിനും തുടരുക അതിനാൽ ആദ്യത്തെ കമ്പനിയായ P യുടെ ഫിഗർ 2314 എന്ന് കാണാം B6 ശ്രദ്ധാപൂർവ്വം നോക്കുക അത് കണക്കാക്കിയ രീതി ശ്രദ്ധിക്കുക B 6 യഥാർത്ഥ വിൽപ്പനയെ സൂചിപ്പിക്കുന്നു ഇത് B 6 1878 ആണ് ഒരുപക്ഷേ നിങ്ങൾക്ക് ഇത് എഴുതാം നിങ്ങൾ ആദ്യമായി 1878 x 1 1 എന്നത് 1878 x 1 12 എന്നാക്കാം 1 1 ആക്കി മാറ്റുന്നത് കാരണം 10 ശതമാനം വർദ്ധനയും വിൽപ്പന വിലയിൽ 12 ശതമാനം വർദ്ധനയും ആകുന്നു അതിനാൽ വിൽപ്പന യൂണിറ്റിൽ 10 ശതമാനം വർദ്ധനയും വില്പന വിലയിൽ 12 ശതമാനം വർദ്ധനവും ഇവിടെ കാണാം അതുകൊണ്ടാണ് 1 1 ൽ നിന്ന് 1 12 വരെ വർധനയിൽ ലഭിക്കുന്നത് ഇത് വളരെ പ്രധാനമാണ് നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ അസംസ്കൃത വസ്തു 1412 അസംസ്കൃത വസ്തുക്കൾ പൂർണ്ണമായും വേരിയബിൾ ഇനമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഇത് പ്രവർത്തനത്തിന്റെ തോത് അനുസരിച്ച് മാറുന്നു അതിനാൽ കഴിഞ്ഞ വർഷത്തെ കണക്ക് 1 1 ൽ നിന്ന് 1 07 കാരണം അസംസ്കൃത വസ്തുക്കളുടെ വില 7 ശതമാനo വർധിച്ചിരിക്കുന്നു രണ്ട് കാരണങ്ങളാൽ പൂർണ്ണമായും വേരിയബിൾ ഐറ്റത്തിന്റെ മാറ്റമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒന്ന് വിൽപന യൂണിറ്റുകളിൽ 10 ശതമാനം മാറ്റം വരുത്തിയതാണ് അതിനാൽ അസംസ്കൃത വസ്തുക്കളുടെ വിലയിൽ 1 1 എന്നത് 1 07 എന്നായി ഇപ്പോൾ പവറിന്റെയും ഇന്ധനത്തിന്റെയും കാര്യത്തിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യണം ഒന്നാമതായി കഴിഞ്ഞ വർഷത്തെ വൈദ്യുതിയിലും ഇന്ധനച്ചെലവിലും വ്യത്യാസത്തിന്റെ ശതമാനം ബാധകമാണ് 80 ശതമാനം വേരിയബിൾ എലമെന്റാണെന്നും വേരിയബിൾ എലമെന്റിന് രണ്ട് മാറ്റങ്ങളുണ്ടാകും 1 1 യൂണിറ്റുകളിലെ മാറ്റം കാരണം വീണ്ടും 1 1 കാരണം പവർ ഉൾപ്പെടെയുള്ള മറ്റ് പ്രവർത്തനച്ചെലവുകൾ അത് ലഭിക്കുന്നത് 10 ശതമാനം വർദ്ധിച്ചു അത് എങ്ങനെയെന്ന് ഞാൻ കാണിക്കും അതു ചെയ്തു അതിനാൽ B 10 B 20 ആക്കി മാറ്റിയത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം B 20 എന്നത് കഴിഞ്ഞ വർഷത്തെ കണക്ക് 80 ശതമാനവും യൂണിറ്റുകളുടെ മാറ്റം കാരണം 1 1 ആയും കോസ്റ്റിന്റെ വ്യത്യാസം വീണ്ടും 1 1 ആയും വ്യതിയാനത്തിന്റെ ശതമാനത്തെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ നമുക്ക് ഫിക്സഡ് ചെലവുകൾ നോക്കാം ഫിക്സഡ് കോസ്റ്റ് നമുക്ക് B 10 B 10 കഴിഞ്ഞ വർഷത്തെ കണക്ക് 1 0 മുതൽ 0 2 വരെയായി കാണാം കാരണം ഇവിടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 80 ശതമാനം വേരിയബിളാണ് അതായത് 20 ശതമാനം ഫിക്സഡ് ആണ് ഫിക്സഡ് ആയ 20 ശതമാനം ഭാഗം മാറില്ല എന്നാൽ പ്രവർത്തന ചെലവിലെ മാറ്റം കാരണം അത് 10 ശതമാനം മാറും അതിനാൽ കഴിഞ്ഞ വർഷത്തെ വൈദ്യുതിയുടെ ഈ നിശ്ചിത ഭാഗം 0 2 മുതൽ 1 1 വരെ മാറ്റമുണ്ടായി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ ദയവായി ഒന്നോ രണ്ടോ ഇനങ്ങൾ എന്നോടൊപ്പം ചെയ്താൽ തുടർന്ന് മറ്റ് ഇനങ്ങൾക്കും ഇതേ ലോജിക്ക് വിപുലീകരിക്കാൻ കഴിയും ഇനി നമുക്ക് എംപ്ലോയീസ് കോസ്റ്റ് വേരിയബിൾ പോർഷൻ നോക്കാം ഇപ്പോൾ വേരിയബിൾ പോർഷൻ B 11 നും B 21 x 1 1 x 1 1 ആയി ഉയർത്തും B 11 എന്നത് കഴിഞ്ഞ വർഷത്തെ വിലയെ സൂചിപ്പിക്കുന്നു അത് B 21 ആയ വേരിയബിൾ പോർഷൻ 150 ആണ് B21 60 ശതമാനം വേരിയബിൾ പോർഷൻ ആണ് അതിനാൽ 150 x 60 ശതമാനം എന്നത് കഴിഞ്ഞ വർഷത്തെ ജീവനക്കാരുടെ ചെലവിന്റെ വേരിയബിൾ ഭാഗമാണ് ഇപ്പോൾ യൂണിറ്റുകൾ 10 ശതമാനം വേരിയബിൾ പോർഷൻ ആയി മാറും 1 1 വീണ്ടും മാറുന്നത് കാണാം കാരണം ചിലവ് 10 ശതമാനം മാറും അങ്ങനെ 1 1 x 1 എങ്ങനെ 109 ലഭിച്ചുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇപ്പോൾ നമുക്ക് ഇത് ഫിക്സഡ് ഇൽ കണക്കാക്കാം ഒന്നാമതായി കഴിഞ്ഞ വർഷത്തെ കണക്കായ B 11 x 0 4 ആയി എടുക്കും അതിൽ 60 ശതമാനം വേരിയബിളാണ് അതായത് 40 ശതമാനം ഫിക്സഡ് ആയി നിശ്ചയിച്ചിരിക്കുന്നു ഈ ഫിക്സഡ് പോർഷൻ ഒരിക്കലും യൂണിറ്റിൽ മാറ്റം വന്നു എന്ന കാരണത്താൽ മാറുന്നില്ല പക്ഷേ പ്രവർത്തനച്ചെലവ് മാറുന്നത് കാരണം ഇത് മാറും അതിനാലാണ് B 11 x 0 4 x 1 1 ആയി അത് ലഭിക്കുന്നത് ഇപ്പോൾ ഇത് വളരെ ലളിതമാണ് അതുപോലെ തന്നെ ഞങ്ങൾ 111 വിൽപ്പനയിലും ചെയ്യാൻ പോകുന്നു അതിനാൽ B 12 x 0 75 കാരണം 75 ശതമാനം ഒരു വേരിയബിൾ ഘടകമാണ് B 12 x 0 75 x 1 1 x 1 1 കാരണം ഇത് വേരിയബിൾ ആയതിനാൽ ഇത് യൂണിറ്റുകൾക്കും പ്രവർത്തന ചെലവുകൾക്കും അനുസരിച്ച് മാറും ഇപ്പോൾ ഫിക്സഡ് എടുത്താൽ ഫിക്സഡ് B 12 x 0 25 x 1 1 ഫിക്സഡ് പോർഷൻ ആക്കി 1 1 ആക്കി മാറ്റുന്നത് യൂണിറ്റുകൾക്കനുസരിച്ച് മാറ്റമില്ല കാരണം മറ്റ് പ്രവർത്തനച്ചെലവുകളിലെ മാറ്റം മാത്രം ഫിക്സിഡിൽ ബാധിക്കുന്നുള്ളൂ എല്ലാ ഇനങ്ങൾക്കും കണക്കുകൂട്ടാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ അതേ രീതിയിൽ തന്നെ ഞങ്ങൾ മറ്റേതെങ്കിലും ഉൽപ്പന്നത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് കമ്പനിയിലേക്കോ പോകും അത്തരമൊരു കമ്പനി ആണ് Q ഇപ്പോൾ നിങ്ങൾക്ക് ഇത് വേഗത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു കഴിഞ്ഞ വർഷത്തെ വിൽപ്പന 1 1 x 1 12 ആയി കാരണം വിൽപ്പന വിലയിൽ 12 ശതമാനം വർദ്ധനവ് വിൽപ്പന യൂണിറ്റുകൾ കാരണം 10 ശതമാനം വർദ്ധനവ് ഇത് പൂർണ്ണമായും വേരിയബിളാണ് അതിനാൽ ഞങ്ങൾക്ക് നേരിട്ട് കണക്കാക്കാൻ കഴിയും RM ചെലവ് ഇപ്പോൾ വളരെ ലളിതമാണ് അസംസ്കൃത വസ്തുക്കളുടെ വിലയിലെ മാറ്റം കാരണം യൂണിറ്റുകൾ 1 07 ആയി മാറിയതിനാൽ കഴിഞ്ഞ 9 വർഷത്തെ RM വില 1 1 ആയി ഇപ്പോൾ പവറും ഇന്ധനവും നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാനാകുമെന്ന് ഞാൻ കരുതുന്നു ഈ കണക്കുകൾ ഉപയോഗിച്ച് ക്രോസ് ചെക്ക് ചെയ്ത് ഉറപ്പിച്ചു 167 ഫിക്സഡ് ഇത് ചെലവ് മാറുന്നതിനാൽ മാത്രമേ മാറൂ രണ്ട് ഘടകങ്ങൾ കാരണം വേരിയബിൾ മാറും യൂണിറ്റുകളുടെ മാറ്റവും അതുപോലെ ചെലവുകളുടെ മാറ്റവും ജീവനക്കാരുടെ ചെലവ് ജീവനക്കാരുടെ ചെലവിൽ വേരിയബിലിറ്റി 30 ശതമാനമാണെന്ന് ഞങ്ങൾക്കറിയാം ഇത് ഒരു വേരിയബിളാണ് അതിനാൽ മൊത്തം ചെലവ് 30 x 1 1x 1 1 ആക്കി മാറ്റുക ഫിക്സിഡിനായി ഞങ്ങൾ ഒരു ഘടകം മാത്രം കണക്കിലെടുക്കും അതിനാൽ മൊത്തം ചെലവ് 70 ശതമാനമാക്കി കാരണം 70 ശതമാനം 70 x1 1x1 1 ഒരു നിശ്ചിത ഘടകമാണ് വിൽപ്പന വേരിയബിൾ ആയതിനാൽ രണ്ട് ഘടകങ്ങളുണ്ട് 1 1 രണ്ട് തവണ ഫിക്സഡ് ലളിതമായിരിക്കും അത് ഒരിക്കൽ മാത്രമേ നേരിട്ട് വരികയുള്ളൂ അതായത് 1 1 എല്ലാ ഇനങ്ങൾക്കും ഇത് കണ്ടുപിടിക്കാം നിങ്ങൾക്ക് ഇത് മനസ്സിലായോ ഇനി നമുക്ക് P യുടെ വരുമാന കുറിപ്പ് പൂർത്തിയാക്കാം ബ്രേക്ക്ഈവൻ പോയിന്റിലേക്ക് പോകാൻ അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ലാത്തതിനാൽ നിങ്ങൾക്ക് ഇവിടെ നിരീക്ഷിക്കാനാകുന്ന എല്ലാ ചിലവുകളും ഇപ്പോൾ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ആകെ വിസിയും എഫ്സിയും വെവ്വേറെ എടുത്തിട്ടില്ല എന്നാൽ ഓരോ ഘടകത്തിനും ഞങ്ങൾ വേരിയബിളിലേക്കും ഫിക്സിഡിലേക്കും വിഭജിക്കുന്നു കാരണം അവ മാറുന്ന രീതി വേരിയബിളായിരിക്കുമ്പോഴും ഫിക്സഡ് ആയിരിക്കുമ്പോഴും മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഞങ്ങൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് പ്രോഫിറ്റ് കണക്കാക്കും അത് 292 ആണ് അതിനാൽ ഞങ്ങൾ B 37 B 49 ആണെടുക്കുന്നത് 49 മൊത്തം ചെലവാണ് സ്ഥിരവും വേരിയബിളും ആയി വേർതിരിക്കാത്ത മൊത്തം ചിലവ് കാരണം ഇവിടെ ഫിക്സഡ് എന്നോ വേരിയബിൾ എന്നോ വ്യത്യാസമില്ല എന്നതിനാൽ ഞങ്ങൾ തുക എടുക്കുന്നു ഇത് സ്ഥിരമോ വേരിയബിളോ ആണ് പ്രൊജക്ഷന് ഇത് ഒരു വ്യത്യാസം വരുത്തി എന്നാൽ ഇപ്പോൾ നമുക്ക് മൊത്തം ചെലവ് 2021 എടുക്കാം ഇപ്പോൾ 2314 മൈനസ് 2021 ആണ് അതിനാൽ നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് ക്യാഷ് പ്രോഫിറ്റ് 292 ലഭിക്കുന്നു കാരണം ഞങ്ങൾ മൂല്യത്തകർച്ച പരിഗണിക്കാത്തതിനാൽ ഞങ്ങൾ അതിനെ ക്യാഷ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നു ഞങ്ങൾ മറ്റ് വരുമാനമായി കണക്കാക്കില്ല നിങ്ങൾ മുൻപോട്ട് പോയാൽ മൂല്യത്തകർച്ചയും പലിശയും മറ്റ് വരുമാനവും മാറില്ല എന്ന വ്യക്തമായ അനുമാനം ഉണ്ടായിരുന്നു അതിനാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ അതേ ഡിപ്രീസിയേഷൻ ഈടാക്കാം ഇപ്പോൾ നിങ്ങൾക്ക് പ്രവർത്തന ലാഭം 256 ആണ് മറ്റ് വരുമാനം 41 എടുക്കുക പലിശ 26 കുറക്കുക നികുതിക്ക് മുമ്പുള്ള ലാഭം 271 ആണ് ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കിയാൽ എങ്ങനെയാണ് നികുതിക്ക് മുമ്പുള്ള കഴിഞ്ഞ വർഷത്തെ ലാഭം നൽകിയിട്ടില്ല പക്ഷേ നമുക്ക് മനസിലാക്കാൻ വേണ്ടി നമുക്ക് അത് കണക്കാക്കാം എന്തായാലും ഞങ്ങൾ അത് പിന്നീട് ചെയ്യും കഴിഞ്ഞ വർഷത്തെ നികുതി 41 ആണ് ഞാൻ ഇവിടെ എത്ര നികുതി ഈടാക്കണം നികുതി നിരക്കുകൾ മാറിയിട്ടില്ല എന്നാൽ നികുതി നിരക്ക് എത്രയാണെന്ന് അവർ പറഞ്ഞത് കാണുക നികുതി നിരക്ക് എവിടെയെങ്കിലും എത്രയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ അത് നൽകിയിട്ടില്ല പക്ഷേ അവർ നേരിട്ട് ഞങ്ങൾക്ക് നികുതി നൽകിയിട്ടുണ്ട് അതിനാൽ ഞങ്ങൾ നികുതി നിരക്ക് കണക്കാക്കേണ്ടതുണ്ട് അതിനായി ആദ്യം കഴിഞ്ഞ വർഷത്തെ ലാഭം കണക്കാക്കേണ്ടതുണ്ട് അതിൽ 41 ശതമാനം നികുതി ഈടാക്കുന്നു അതിനാൽ ദയവായി കഴിഞ്ഞ വർഷത്തെ ലാഭം ആദ്യം കണക്കാക്കുക ലാഭത്തെ അടിസ്ഥാനമാക്കി ഞങ്ങൾക്ക് ടാക്സസ് ഫൈൻ കണക്കാക്കാൻ കഴിയും അതിനാൽ ഞങ്ങൾ എന്തുചെയ്യും ആദ്യം എല്ലാ ചെലവുകളുടെയും ആകെത്തുക എടുക്കുക തുടർന്ന് വരുമാനം അതിനർത്ഥം നികുതി ഒഴികെയുള്ള മൊത്തം ചെലവും കഴിഞ്ഞ വർഷത്തെ മൊത്തം വരുമാനവും നോക്കുക അത് നിങ്ങൾക്ക് PBT നൽകും ഈ ഡാറ്റ ഉപയോഗിച്ച് നികുതി 41 ആണെന്ന് ഞങ്ങൾക്കറിയാം അങ്ങനെ ഈ ഡാറ്റാ ഉപയോഗിച്ച നികുതി നിരക്ക് കണക്കാക്കാം അതിനാൽ കഴിഞ്ഞ വർഷത്തെ ചെലവിന്റെ അടിസ്ഥാനത്തിൽ 41 ഒഴികെയുള്ള ഈ ഇനങ്ങളുടെയെല്ലാം ടോട്ടൽ എടുക്കുക കാരണം 41 എന്നത് ഒരു നികുതിയാണ് അത് ഒരു ചെലവല്ല ഇപ്പോൾ നമ്മൾ ടോട്ടൽ എടുക്കുമ്പോൾ ഓർക്കുക ഇത് B 9 മുതൽ B 14 വരെയുള്ള തുകയാണ് നിങ്ങൾക്ക് 1779 ലഭിക്കും ഇപ്പോൾ ഒരു വരുമാനം എത്രയാണ് 1919 വരുമാനം മൊത്തം വിൽപ്പനയും മറ്റ് വരുമാനവും ആണ് അതിനാൽ നിങ്ങൾക്ക് നികുതിക്ക് മുമ്പ് ലാഭം ലഭിക്കുന്നത് 140 ആണ് കമ്പനിയുടെ നികുതി ചാർജ് 41 ആയിരുന്നു അതിനാൽ 41 എന്നത് 140 തിന്റെ ശതമാനമായി കണക്കാക്കുക അതിനാൽ B 15 മുതൽ B 70 ഫോർമുല കാണാം അതായത് 41 ന് 40 നിങ്ങൾക്ക് 0 29 അല്ലെങ്കിൽ 30 ശതമാനത്തോട് അടുത്ത് ലഭിക്കും നികുതി നിരക്ക് മാറില്ലെന്ന് കമ്പനി പറഞ്ഞ കഴിഞ്ഞ വർഷം കമ്പനിക്ക് ബാധകമായ നികുതി നിരക്കാണിത് ഇപ്പോൾ 271 ആയ പുതിയ ലാഭത്തിന് അതേ നികുതി നിരക്ക് ബാധകമാക്കുക നികുതി 79 ആകും നിങ്ങൾക്ക് മനസിലാകുന്നുണ്ടോ നിങ്ങൾക്ക് ഇവിടെ താരതമ്യം ചെയ്യാം കഴിഞ്ഞ വര്ഷങ്ങളിലെ ലാഭം ഏതാണ്ട് 140 ആയിരുന്നു നടപ്പുവർഷം ലാഭം 271 ആയി വർധിച്ചു നികുതിയും ഇരട്ടിയായി നികുതിക്ക് ശേഷമുള്ള ലാഭം 192 ആണ് കൂടാതെ കഴിഞ്ഞ വർഷത്തെ നികുതി കഴിഞ്ഞ വർഷത്തെ നികുതിക്ക് ശേഷമുള്ള ലാഭം എത്രയായിരുന്നു കണക്കുകൂട്ടലിനായി ഞങ്ങൾ അത് ഇവിടെ കണക്കാക്കും 41 ആയിരുന്നു നികുതി അതിനാൽ നികുതിക്ക് ശേഷമുള്ള ആ ലാഭം ചോദിച്ചിട്ടില്ല പക്ഷേ ഞങ്ങളുടെ സ്വന്തം വിവരത്തിന് ഇത് കഴിഞ്ഞ വർഷം 99 ആയിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഇത് 192 ആണെന്ന് പറയാം ഏകദേശം നികുതിക്ക് ശേഷമുള്ള ലാഭത്തിന്റെ ഇരട്ടിയാണ് ഇപ്പോൾ Q എന്ന മറ്റൊരു കമ്പനിക്കായി ഇത് കണക്കാക്കുക ഏത് കമ്പനികളുടെ ലാഭമാണ് കൂടുതൽ വർദ്ധിക്കുകയെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനാകുമോ P യുടെ ലാഭം കൂടുമോ അതോ Q യുടെ ലാഭം കൂടുമോ കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള വിൽപ്പന വിലകൾ മുതലായവ രണ്ട് കമ്പനികൾക്കും ഒരേ അനുപാതത്തിലാണ് മാറുന്നത് രണ്ടു കമ്പനികൾക്കും മാറ്റം ഒരുപോലെയാണെന്നു നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ അതിനാൽ Q യ്ക്കും ലാഭം അതേ അനുപാതത്തിൽ മാറും അല്ലെങ്കിൽ Q കൂടുതൽ ലാഭകരമോ കുറച്ചു ലാഭകരമോ ആയിരിക്കും നിങ്ങൾക്ക് അൽപ്പം ചിന്തിക്കാമോ നിങ്ങളിൽ ചിലർക്ക് ഇത് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു സൂചന നൽകും ഇവ നോക്കൂ P ക്ക് കൂടുതൽ വേരിയബിളിറ്റിയുണ്ട് Q വിന് വേരിയബിലിറ്റി കുറവാണ് അതിനാൽ Q ന്റെ ചെലവുകൾക്ക് സ്ഥിരമായ ചിലവുകളുടെ കൂടുതൽ ഭാഗമുണ്ട് കുറഞ്ഞ വേരിയബിളിറ്റി അർത്ഥമാക്കുന്നത് ഫിക്സഡ് കോസ്റ്റ് വിലയുടെ കൂടുതൽ ആണെന്നാണ് ഇപ്പോൾ വിൽപ്പന 10 ശതമാനം വർദ്ധിക്കുന്നു അതിനാൽ Q യുടെ ലാഭം P യേക്കാൾ കൂടുതലോ P നേക്കാൾ കുറവോ ആയിരിക്കും Q യുടെ ലാഭം കൂടുതൽ വർദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു കാരണം അവർക്ക് ഫിക്സഡ് കോസ്റ്റിന്റെ വലിയൊരു ഭാഗം ഉണ്ട് ഫിക്സഡ് കോസ്ററ് കവർ ചെയ്തുകഴിഞ്ഞാൽ അവർക്ക് വലിയ ലാഭം ലഭിക്കുമോ ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആണോ എന്ന് ഞങ്ങൾ ചെക്ക് ചെയ്യും ഇപ്പോൾ എല്ലാ ചെലവുകളും എടുക്കുക അതിനാൽ നിങ്ങൾക്ക് 1829 EBIDTA ലഭിക്കും അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് പ്രോഫിറ്റ് 323 ആണ് ഡിപ്രീസിയേഷനും മറ്റ് വരുമാനവും പലിശയും മറ്റും ഈടാക്കുമ്പോൾ PBT എത്രയാണ് കഴിഞ്ഞ തവണത്തെപ്പോലെ 153 നികുതികളാണ് നിങ്ങൾ ആദ്യം നികുതി നിരക്കാണ് കണക്കാക്കേണ്ടത് അതിനാൽ മൊത്തം ചെലവുകൾ 1743 ആണ് രണ്ട് കണക്കുകളും ഏതാണ്ട് ഒരുപോലെയാണ് മൊത്തം വരുമാനം 1750 PBT 7 ആണ് നികുതി നിരക്ക് 0 14 ആയിരുന്നു കഴിഞ്ഞ വർഷം നിങ്ങൾ ഉയർന്നിരുന്നെങ്കിൽ നികുതി 1 മാത്രമായിരുന്നു 17 അത് 0 41 ആണേ അങ്ങനെ നമ്മുടെ സ്വന്തം വിവരങ്ങൾക്ക് നികുതി എഴുതിയാൽ നികുതിക്ക് ശേഷമുള്ള ലാഭം എത്രയാണ് ഇത് 6 ആയിരിക്കും ഇത് കഴിഞ്ഞ വര്ഷത്തേതാണ് ഇപ്പോൾ നടപ്പു വർഷത്തിൽ അതേ നികുതി നിരക്ക് 14 ശതമാനം ബാധകമാക്കുക അപ്പോൾ നിങ്ങളുടെ നികുതി 22 ഉം നികുതിക്ക് ശേഷമുള്ള ലാഭം 131 ഉം ആണ് അപ്പോൾ ഏത് കമ്പനിയാണ് കൂടുതൽ മെച്ചപ്പെടുത്തിയത് Q ഗണ്യമായ പുരോഗതി കാണിച്ചു വ്യക്തതയ്ക്കായി കഴിഞ്ഞ വർഷത്തെ Q യുടെ ലാഭം വെറും 6 ആയിരുന്നുവെന്ന് കാണുക ഞാൻ ഇത് എഴുതാം നിങ്ങൾക്ക് അത് മനസിലാകുന്നുണ്ടോ അതിനാൽ P യുടെ PAT 99 ആയിരുന്നത് അത് 192 ആയി വർദ്ധിച്ചു ഇത് ഏകദേശം ഇരട്ടിയായതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്നാൽ Q ന് ഇത് 6 മാത്രമായിരുന്നു 6 ൽ നിന്ന് 131 ആയി അതായത് എത്ര മടങ്ങ് വർദ്ധിച്ചു ഏകദേശം 20 മടങ്ങ് വർദ്ധനവ് അതിനാൽ Q യ്ക്ക് ഗണ്യമായ വർദ്ധനവ് സംഭവിച്ചു ഇപ്പോൾ ഞങ്ങൾ പ്രൊജക്ഷൻ പൂർത്തിയാക്കിക്കഴിഞ്ഞു നിങ്ങൾ പ്രക്രിയ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ഈ ഫോർമുല ചെറുതായി മാറ്റും നിങ്ങൾ പ്രോബ്ലം ഷീറ്റിലേക്ക് പോയാൽ വിൽപ്പന യൂണിറ്റ് മാറ്റം 10 ശതമാനമായിരുന്നു വിൽപ്പന യൂണിറ്റ് മാറ്റം 20 ശതമാനമോ 40 ശതമാനമോ ആണെങ്കിൽ എന്ത് സംഭവിക്കും രണ്ട് കമ്പനികൾക്കും ഒരുപോലെ 20 20 അല്ലെങ്കിൽ 40 40 വിൽപ്പന കൂടുതൽ ക്വാണ്ടം വർദ്ധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ Q കൂടുതൽ ലാഭകരമാകും അല്ലെങ്കിൽ P കൂടുതൽ ലാഭകരമാകും Q ന് വേരിയബിളിറ്റി കുറവായതിനാൽ അതായത് അവരുടെ നിശ്ചിത ചെലവുകൾ കൂടുതലാണ് അവർ കൂടുതൽ ഓട്ടോമേറ്റഡ് കമ്പനിയാണ് അവർ കൂടുതൽ സാങ്കേതിക വിദ്യാധിഷ്ഠിത കമ്പനിയാണ് അതിനാൽ കൂടുതൽ വിൽപ്പനയുള്ള കൂടുതൽ വാല്യങ്ങൾ ഉള്ളതിനാൽ യഥാർത്ഥത്തിൽ അവരുടെ ലാഭം ഗണ്യമായി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഞാൻ നിങ്ങൾക്ക് കണക്കുകൂട്ടലുകൾ കാണിക്കും അത് സ്വയം ചെയ്യാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കും കാരണം അത് നിങ്ങൾക്ക് കൂടുതൽ പരിശീലനം നൽകും എന്നാൽ ഇപ്പോൾ സമയം പരിമിതമായതിനാൽ ഞങ്ങൾ നേരിട്ട് ഉത്തരത്തിലേക്ക് പോകും ഞാൻ ഇത് ഇപ്പോൾ ദൃശ്യമാക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ വിൽപ്പനയിൽ ഞാൻ എങ്ങനെ ചെയ്തുവെന്ന് നിരീക്ഷിക്കുക അത് 1 2 ൽ നിന്ന് 1 12 ആക്കി കാരണം 20 ശതമാനം വർദ്ധനവും 12 ശതമാനം വില വർദ്ധനയും അസംസ്കൃത വസ്തുക്കൾ 1 2 ആയും 1 07 1 2 ആയും വർദ്ധിക്കുന്നു കാരണം യൂണിറ്റുകളിൽ 20 ശതമാനം വർധനവ് കൂടാതെ ആർഎം ചെലവിൽ 7 ശതമാനം വർദ്ധനവും ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും സംബന്ധിച്ചിടത്തോളം എല്ലാം അതേ രീതി ശരിയാണ് പവർ 10 ശതമാനം വർദ്ധിക്കുമെന്ന് നമുക്ക് പറയാം അതിനാൽ ഫിക്സഡ് കോസ്റ്സ് കണക്കുകൾ ഒന്നുതന്നെയാണ് വേരിയബിൾ കോസ്റ്റിന്റെ കണക്കുകൾ കഴിഞ്ഞ തവണ 10 ശതമാനം വർദ്ധിച്ചു ഇപ്പോൾ അവ 20 ശതമാനം വർദ്ധിച്ചു താഴേക്ക് പോയാൽ ഇപ്പോൾ P യുടെ ലാഭം 221 ആയി ഉയർന്നു എന്ന് കാണാം എന്നാൽ Q യുടെ ലാഭം ഗണ്യമായി വർദ്ധിച്ചു അത് 191 ആണ് അത് P യുടെ ലാഭത്തോട് അടുത്തു പക്ഷേ ഇപ്പോഴും P യുടെ പ്രോഫിറ്റ് കൂടി നില്കുന്നു അത് Q യെക്കാൾ ലാഭകരമായി തുടരുന്നു ഇനി 40 ശതമാനം വർദ്ധന ഉണ്ടായാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം അതേ മെതഡോളോജി 1 4 മുതൽ 1 12 വരെ ഉപയോഗിച്ചു അതിനാൽ ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 40 ശതമാനം വർദ്ധനയാണ് ഇപ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും Q ന്റെ ലാഭം 311 ആണ് അത് P യെ മറികടന്നു ഞങ്ങളുടെ ബ്രേക്ക്ഈവൻ പോയിന്റ് ചാർട്ട് നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ ബ്രേക്ക്ഈവൻ പോയിന്റിൽ ലാഭത്തിന്റെ ഏരിയ വർദ്ധിക്കുന്നത് നിങ്ങൾ കണ്ടെത്തും ബ്രേക്ക് ഈവൻ പോയിന്റിൽ പ്രൊഫിറ്റും ലോസും ഉണ്ടായിരിക്കുകയില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ നിശ്ചിത ചെലവുകൾ വീണ്ടെടുത്തു ബ്രേക്ക്ഈവൻ പോയിന്റിന് ശേഷം നിങ്ങളുടെ ലാഭം കൂടുതൽ കൂടുതൽ വർദ്ധിക്കും Q ന്റെ കാര്യത്തിൽ അവരുടെ PV അനുപാതം കൂടുതലായിരിക്കും P Q എന്നിവയ്ക്കായി PV അനുപാതം കണക്കാക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കും അതിനാൽ ഞാൻ എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കും P ന് കുറഞ്ഞ PV അനുപാതമുണ്ട് കാരണം അവർക്ക് കൂടുതൽ വേരിയബിൾ കോസ്റ്റ് ഉണ്ട് Q ന് ഉയർന്ന PV അനുപാതമുണ്ട് അതിനാൽ അവരുടെ ലാഭക്ഷമത അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും കഴിഞ്ഞ വർഷം P യുടെ ലാഭം ഉയർന്നതാണെങ്കിലും വിൽപ്പന ഉയരുമ്പോൾ നിങ്ങൾക്ക് P യുടെ ലാഭം വർദ്ധിക്കുന്നത് കാണാൻ കഴിയും പക്ഷേ വളരെ ഉയർന്ന നിരക്കിലല്ല എന്നാൽ Q വിന്റെ ലാഭം ഗണ്യമായി വർദ്ധിക്കുകയാണ് നിങ്ങളിൽ ചിലർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ താൽപ്പര്യമുണ്ടെങ്കിൽ Q വളരെ നല്ല ഒരു കമ്പനിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അവരുടെ ലാഭം വളരെ കുറവാണ് എന്നാൽ ഇത് ഒരു ടേൺ എറൌണ്ട് കമ്പനിയാണ് വിൽപ്പനയിൽ നേരിയ വർദ്ധനവ് ഉണ്ടായാൽ അവ വളരെ ലാഭകരമായി മാറും അതിനാൽ യഥാർത്ഥത്തിൽ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർ അത്തരം കമ്പനികൾക്കായി തിരയുകയും അതിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു അതിനാൽ ഞങ്ങൾ പഠിച്ച ചെലവിന്റെ വിശകലനം പ്രൊജക്ഷനുകൾ എടുക്കുന്നതിനെ വളരെ ഉപയോഗപ്രദമാണ് ഇത് കമ്പനിക്ക് സ്വന്തം ജോലിക്കായി ഉപയോഗിക്കാം വേരിയബിളിറ്റിയുടെ ശതമാനം ശരിയാണെന്ന് വിലയിരുത്താൻ അവർക്ക് കഴിയുമെങ്കിൽ നിക്ഷേപകർക്കും ഇത് ഉപയോഗിക്കാം ബാങ്കർമാരെപ്പോലുള്ള മറ്റ് പങ്കാളികൾക്കും ഇത് ഉപയോഗിക്കാൻ കഴിയും കാരണം അവർക്കും ലാഭം പ്രതീക്ഷിക്കുന്നതിൽ താൽപ്പര്യമുണ്ട് അതിനാൽ ഇങ്ങനെയാണ് പ്രൊജക്ഷനുകൾ ചെയ്യാൻ കഴിയുക അതിനാൽ ഇത് നിങ്ങൾക്ക് ഒരു നല്ല പഠന കേസ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ ഞങ്ങൾ ഇവിടെ നിർത്തും